J ഇന്റഗ്രലിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം ഈ ക്ലാസ്സിൽ CTOD യുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളാനും ഞാൻ ശ്രമിക്കും സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ FAD യെ കുറിച്ചും നമ്മൾ നോക്കും failure assessment ഡയഗ്രം എന്നിവയും പരിശോധിക്കും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു എലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ സ്വഭാവം ഉള്ളപ്പോൾ നോൺ ലീനിയർ ഇലാസ്റ്റിക് സ്വഭാവവും എലാസ്റ്റോ പ്ലാസ്റ്റിക് സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സിസ്റ്റം നോൺ ലീനിയർ ആയിരിക്കുമ്പോൾ നിങ്ങൾ ലോഡു ചെയ്യുകയും അൺലോഡു ചെയ്യുകയാണെങ്കിൽ ലോഡിംഗ് അൺലോഡിംഗ് പാത്ത് അതേപടി തുടരും എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനം ബുദ്ധിമുട്ടാക്കുന്നത് നിങ്ങൾ അൺലോഡുചെയ്യുമ്പോൾ അൺലോഡിംഗ് പാത വ്യത്യസ്തമായിരിക്കും എന്നതാണ് ഇത് ബുദ്ധിമുട്ടുള്ള ഒരു വശമാണ് ഇത് പരിഹരിക്കേണ്ടതുണ്ട് ഒപ്പം ഒരു ക്രാക്ക് പ്രൊപഗേഷൻ ക്രാക്ക് ഗ്രോത്ത് എന്നിവ ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങൾ തീർച്ചയായും അൺലോഡു ചെയ്യുമായിരുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഒരു പ്രത്യേക സ്ട്രെയിൻ മൂല്യത്തിനു നിങ്ങൾക്ക് രണ്ട് സ്ട്രെസ് മൂല്യങ്ങളുണ്ട് അതിനാൽ സ്ട്രെയിൻ ചരിത്രത്തിന്റെ ട്രാക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന മെറ്റീരിയല് ബിഹേവിയർ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് കഴിയില്ല ഇത് എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനം ബുദ്ധിമുട്ടാക്കുന്നു എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ സ്വഭാവത്തിൽ സ്ഥിരമായ വിള്ളൽ വളർച്ച സാധാരണയായി നിരീക്ഷിച്ചു ഞാൻ സൂചിപ്പിച്ചിരുന്നു വിള്ളൽ വളർച്ച ഉണ്ടാകുമ്പോൾ അൺലോഡിങ്ങ് ഉണ്ടാകുന്നു അതിനാൽ ആളുകൾ EPFM ഇൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രായോഗിക ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി ആയിരുന്നു ഇത് വിള്ളൽ വളർച്ചയുടെ ആരംഭം വിവരിക്കുന്നതിനുള്ള കഴിവിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് അത് നേടാൻ കഴിയുന്നിടത്തോളം കാലം ഉദ്ദേശ്യം തൃപ്തികരമാണ് കൂടാതെ യഥാർത്ഥ വിള്ളൽ വളർച്ചയുടെ പരിമിതമായ അളവും കൈകാര്യം ചെയ്യുക അതിനാൽ EPFM ഇൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം ലഭിക്കുന്നു നിങ്ങൾ അതിൽ സന്തുഷ്ടരാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിരവധി ആശയങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം പൊതുവായ സ്വീകാര്യത കണ്ടെത്തി അവ J ഇന്റഗ്രൽ CTOD അല്ലെങ്കിൽ COD എന്നിവയാണ് ഇതിന് പിന്നിൽ ഒരു ചരിത്രവുമുണ്ട് നിങ്ങൾ അതിൻ്റെ വികസനം നോക്കുകയാണെങ്കിൽ J യുഎസിൽ വികസിപ്പിച്ചെടുക്കുകയും COD യുകെയിൽ വികസിപ്പിച്ചെടുത്തു അതിനാൽ ഈ ആശയങ്ങൾ രാജ്യനിർദ്ദിഷ്ടം ആണ് കാരണം ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള രീതിശാസ്ത്രത്തിൽ എത്തിച്ചേരാൻ അവരെ പ്രേരിപ്പിച്ചു അതിനാൽ ആളുകൾ ഇത് വ്യത്യസ്തമായി നോക്കി ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പരിധിക്കുള്ളിൽ ഈ പരാമീറ്ററുകളെല്ലാം ഒന്നുതന്നെയാണ് അത് നമ്മൾ ശരിയായ ദിശയിൽ മുന്നേറുന്നുവെന്നത് ഒരുതരം സംതൃപ്തി നൽകുന്നു ഈ ആശയങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കും എന്താണ് J യുടെ പ്രത്യേകത ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് G എന്ന ഒരു ആശയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് K എന്ന ഒരു ആശയം ഉണ്ടായിരുന്നു G എനർജി റിലീസ് നിരക്കായും K ഒരു സ്ട്രെസ് ഇന്റൻസിറ്റി പാരാമീറ്ററായും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറായും കണ്ടു G യുമായി താരതമ്യപ്പെടുത്താവുന്ന എനർജി പാരാമീറ്ററായും K യുമായി താരതമ്യപ്പെടുത്താവുന്ന സ്ട്രെസ് ഇന്റൻസിറ്റി പാരാമീറ്ററായും ഇതിനെ കാണാൻ കഴിയും എന്നതാണ് J യുടെ പ്രത്യേകത വാസ്തവത്തിൽ അവസാന ക്ലാസിൽ നമ്മൾ നോക്കിയിരുന്നു J യുടെ എനർജി നിർവചനം എന്താണ് എന്നുള്ളത് ഒരു നോൺ ലീനിയർ ഇലാസ്റ്റിക് സോളിഡിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കി ഇത് നമ്മൾ G ആയി കാണുന്നതിനോട് വളരെ സാമ്യമുള്ളതാണ് ലീനിയർ ഇലാസ്റ്റിക് സോളിഡിന്റെ കാര്യത്തിൽ G J എന്നിവ സമാനമാണ് നമ്മൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനത്തിനായി പോകുമ്പോൾ അൺലോഡിംഗ് നടക്കാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധാലുവാണ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ചില ഏകദേശ കണക്കുകൾ കൊണ്ടുവരുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ട്രെസ് ഇന്റൻസിറ്റി പാരാമീറ്ററായി J എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം J as a Stress Intensity Parameter ഇവിടെ വീണ്ടും നിങ്ങൾക്കറിയാം ആളുകൾ ആരംഭിച്ചത് നോൺ ലീനിയർ ഇലാസ്റ്റിക് സോളിഡുകളിൽ നിന്നാണ് അതിനാൽ നിങ്ങൾക്ക് Hutchinson പേപ്പറുകൾ ഉണ്ട് Rice Rosengren എന്നിവരുടെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു അവർ സ്വതന്ത്രമായി J നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയലിൽ ക്രാക്ക് ടിപ്പ് അവസ്ഥയെ ചിത്രീകരിക്കുന്നു ഹച്ചിൻസണും റൈസും യുജി സഹപാഠികളായിരുന്നുവെന്ന് തോന്നുന്നു അതിനാൽ ഫ്രാക്ചർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സമാനമായ സിദ്ധാന്തങ്ങൾ അവർ അവതരിപ്പിച്ചു അത്തരം സംഭവങ്ങളോ അത്തരം വിവരങ്ങളോ ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് ജീവൻ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് J പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ ഇതിനകം കണ്ടു പാത്ത് ഇൻഡിപെൻഡന്റായി തുടരുന്നതിനു സ്ട്രെസ്സിന്റെയും സ്ട്രെയ്നിന്റെയും പ്രോഡക്റ്റ് നമ്മൾ സ്ട്രെയിൻ സ്റ്റാർ സ്ട്രെയിൻ എന്ന് നമ്മൾക്കു എഴുതാൻ പറ്റും എന്ന് അവർ കാണിച്ചു ഇത് സ്ട്രെസ്സിന്റെയും സ്ട്രെയ്നിന്റെയും ഒരു പ്രോഡക്റ്റാണ് ഒപ്പം വിള്ളൽ ടിപ്പിന് സമീപം 1 ബൈ r വരെ വ്യത്യാസപ്പെടണം അതിനാൽ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ സിംഗുലാരിറ്റി ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് വ്യത്യസ്തമാണ് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾക്ക് പ്രശസ്തമായ റൂട്ട് ആർ സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു ഇവിടെ സ്ട്രെയിൻ കാഠിന്യം സൂചികയും ഒരു പങ്ക് വഹിക്കും അത് എങ്ങനെയെന്ന് നമ്മൾ കാണും ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കി അവർ സമ്മർദ്ദ ഘടകത്തിനായുള്ള ഒരു പദപ്രയോഗത്തിൽ എത്തി ഇത് സിഗ്മ ij ആണ് ഇതിനെ kj multiplied by J by r whole power 1 by n plus 1 കൊണ്ട് ഗുണിക്കുന്നു Ki ഒരു ആനുപാതികത സ്ഥിരാങ്കമാണ് n എന്നത് സ്ട്രെയിൻ ഹാർഡനിങ് എക്സ്പോണന്റാണ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോയെന്ന് നോക്കൂ നമ്മൾ Dugdale മോഡൽ നോക്കിയപ്പോൾ Dugdale മോഡൽ ഇലാസ്റ്റിക് തികച്ചും പ്ലാസ്റ്റിക്ക് ആയി കണക്കാക്കി ഇത് സ്ട്രെയിൻ ഹാർഡനിങ് പരിഗണിച്ചില്ല നിങ്ങൾ J യിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ വ്യത്യസ്ത തരം മെറ്റീരിയൽ മോഡലിലേക്ക് നോക്കി സ്ട്രെയിൻ ഹാർഡനിംഗ് വശം നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഒരു ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയലിന് n 1 ന് തുല്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് 1 ബൈ റൂട്ട് r സിംഗുലാരിറ്റി ലഭിക്കും കാരണം നിങ്ങൾ ഒരു പുതിയ ഫലവുമായി പുറത്തുവരുമ്പോഴെല്ലാം നിങ്ങൾ തിരികെ പോയി മുമ്പത്തെ ഫലങ്ങൾ ജനറലൈസ്ഡ് ഫോമിൽ നിന്നും ലഭിക്കുമോയെന്ന് കാണാൻ താൽപ്പര്യപ്പെടുന്നു ആ രീതിയിൽ നിങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾ ശരിയായ ദിശയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ വികസിപ്പിച്ച ഗണിതശാസ്ത്രം സ്ഥിരതയുള്ളതാണോയെന്നത് ഒരു പരോക്ഷ പരിശോധനയാണ് വൈരുദ്ധ്യങ്ങളൊന്നുമില്ല നിങ്ങൾക്കറിയാവുന്നതു പോലെ LEFM ൽ നമ്മൾ K ആധിപത്യ മേഖല കണ്ടതുപോലെ EPFM ൽ ആളുകൾ J ആധിപത്യ മേഖലയിലേക്ക് നോക്കി ഏകദേശ കണക്കുകൾ ഉള്ളതിനാൽ ഇത് എഞ്ചിനീയറിംഗ് വിശകലനത്തിന് സൌകര്യപ്രദമാണ് ഈ മേഖലയെ HRR ഫീൽഡ് അല്ലെങ്കിൽ Cherepanov HRR ഫീൽഡ് എന്ന് വിളിക്കുന്നു ഹച്ചിൻസൺ റൈസ് റോസെൻഗ്രെൻ എന്നിവയ്ക്ക് ഈ HRR ഉണ്ട് പിന്നീട് ചെറെപനോവും സമാനമായ ബന്ധത്തിൽ എത്തി അതിനാൽ ഈ എല്ലാ അന്വേഷകർക്കും ക്രെഡിറ്റ് നൽകുന്നതിന് ആളുകൾ ഇതിനെ HRR ഫീൽഡ് അല്ലെങ്കിൽ ചെറെപനോവ് HRR ഫീൽഡ് എന്ന് വിളിക്കുന്നു എന്നാൽ HRR ഫീൽഡ് എന്നറിയപ്പെടുന്നു ചെറിയ തോതിൽ Yielding നൽകുന്ന ഒരു ഘടന നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ഉണ്ട് സിംഗുലാരിറ്റി ആധിപത്യമുള്ള മേഖലകൾ ഇലാസ്റ്റിക് മേഖലയിൽ ഒന്ന് HRR ഫീൽഡ് എങ്ങനെ കാണപ്പെടുന്നു എന്നതിന്റെ ചിത്രപരമായ പ്രാതിനിധ്യം നമ്മൾ കാണും അവിടെ നമ്മൾക്കു K ആധിപത്യമുള്ള മേഖലയും J ആധിപത്യമുള്ള മേഖലയും കാണാൻ കഴിയും അതിനാൽ ഇലാസ്റ്റിക് മേഖലയിൽ 1 ബൈ റൂട്ട് r ആണ് സിംഗുലാരിറ്റി ഒപ്പം പ്ലാസ്റ്റിക് സോണിലും ഇത് r പവർ മൈനസ് 1 ബൈ n പ്ലസ് 1 ആയി വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇത് ആദ്യത്തെ പഠനം ആണ് നിങ്ങൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനത്തിലേക്ക് വരുന്ന നിമിഷം സിംഗുലാരിറ്റിക്ക് ഒരു പുതിയ പ്രാതിനിധ്യമുണ്ട് സ്ട്രെയിൻ ഹാർഡനിങ് എക്സ്പോണന്റ് പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് റൂട്ട് r മാത്രമല്ല റൂട്ട് r ഒരു പരിധി വരെ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് J ആധിപത്യം പുലർത്തുന്ന ഒരു സോൺ ഉണ്ട് നമ്മൾക്കു വളരെ കുറച്ച് വിവരങ്ങൾ അറിയാവുന്ന ഒരു ഫ്രാക്ചർ പ്രോസസ് സോൺ ഇപ്പോഴും ഉണ്ട് EPFM ക്രാക്ക് ടിപ്പ് വരെ പരിഹരിച്ചതായിരിക്കില്ല ഇത് ക്രാക്ക് ടിപ്പിൽ നിന്ന് അൽപ്പം അകലെയാണ് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ നേരിട്ടതിനേക്കാൾ അല്പം കൂടുതൽ പ്ലാസ്റ്റിറ്റി നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും അവർ ഒരു ഘടനാപരമായ മാതൃക പ്ലാസ്റ്റിക് സ്വഭാവത്തെ പ്രധിനിധികരിക്കാനായിട്ട് സ്വീകരിച്ചതായി ഞാൻ സൂചിപ്പിച്ചിരുന്നു HRR ഫീൽഡ് റാംബെർഗ് ഓസ്ഗുഡ് നിയമത്തെയും ചെറിയ സമ്മർദ്ദ സിദ്ധാന്തത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് സ്ട്രെയിൻ 10 ശതമാനത്തിൽ കൂടുതൽ ആണെങ്കിൽ ഈ സിദ്ധാന്തം പരാജയപ്പെടുന്നു നിങ്ങൾക്ക് 0 2 ശതമാനം സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ മെറ്റീരിയൽ യിൽഡിങ് ഉണ്ടെന്ന് നിങ്ങൾ ഓര്മിക്കേണ്ടതുണ്ട് അതിനാൽ 10 ശതമാനം ഇപ്പോഴും വലുതാണ് നമ്മൾ ഇത് Small strain സിദ്ധാന്തം എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ട്രെയിൻ നോക്കുമ്പോൾ 10 ശതമാനം ഒരു ചെറിയ മൂല്യമല്ല എന്നാൽ ഇത് പരിമിതമാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ 10 ശതമാനത്തിൽ കൂടുതൽ വലിയ സമ്മർദ്ദങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇത് ഇപ്പോഴും വലിയ പ്ലാസ്റ്റിക് മേഖലയാണ് എന്നാൽ ചെറിയ സ്ട്രെയിൻ ഏകദേശമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് നോക്കുമ്പോൾ റൂട്ട് r സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ക്രാക്ക് ടിപ്പിന് സമീപമുള്ള ഉയർന്ന സമ്മർദ്ദം കാരണം വിള്ളൽ സ്ഥിരമായി മൂർച്ഛിക്കും LEFM ൽ അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനത്തിലേക്ക് വരുന്ന നിമിഷം വിള്ളൽ ടിപ്പിന്റെ മൂർച്ച നാം കണക്കിലെടുക്കയില്ല അതിനാൽ HRR വിശകലനത്തിൽ പോലും മൂർച്ചയുള്ള ക്രാക്ക് ടിപ്പിന്റെയോ ക്രാക്ക് ടിപ്പിന് സമീപമുള്ള വലിയ സമ്മർദ്ദങ്ങളുടെയോ ഫലം കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഇത് വളരെ ഉപയോഗപ്രദമായ സമീപനമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ boundary layer സിദ്ധാന്തവുമായി ആളുകൾ ഇതിനെ താരതമ്യം ചെയ്യുന്നു HRR ഫീൽഡ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ കാണും ഒരു ചിത്രപരമായ പ്രാതിനിധ്യം നിങ്ങൾ EPFM നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം J COTD എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പരസ്പരം കൈകോർത്തുപോകും നിങ്ങൾക്ക് ഇവിടെയുള്ളത്ഒരു മൂർച്ചയുള്ളക്രാക്ക്ടിപ്പ് വലിയ മാഗ്നിഫിക്കേഷനിൽ കാണിച്ചിരിക്കുന്നു ക്രാക്ക് ടിപ്പിന് തൊട്ടടുത്തായി നമുക്ക് വളരെ കുറച്ച് അറിവുള്ള ഒരു മേഖലയാണ് അത് ഫ്രാക്ചർ പ്രോസസ് സോൺ എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു ഈ സോണിന് ശേഷം നിങ്ങൾക്ക് J ഫീൽഡുകളുടെ സാധുതയുടെ ഒരു വാർഷിക മേഖലയുണ്ട് ഇതൊരു സ്കീമാറ്റിക് ആണ് ക്രാക്ക് ടിപ്പിന് സമീപം വ്യത്യസ്ത സോണുകൾ തിരിച്ചറിഞ്ഞിരിക്കാമെന്ന് കാണിക്കാൻ ഇത് ആശയപരമായി ശ്രമിക്കുന്നു ഇത് വൃത്താകൃതിയിലുള്ളതാണെന്ന് നിഗമനം ചെയ്യരുത് ഇത് ഓരോ പ്രശ്നത്തിനും വ്യത്യാസപ്പെടാം സോണുകളുടെ വലുപ്പവും രൂപവും ലഭിക്കുന്നതിന് നിങ്ങൾ അത്യാധുനിക EPFM കണക്കുകൂട്ടലുകൾ നടത്തണം ക്രാക്ക് ടിപ്പിനുള്ളിൽ ചില വരികൾ വരച്ചതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മധ്യഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 45 ഡിഗ്രിയിൽ വരച്ച വരകളുണ്ട് അവ പരസ്പരം ലംബമാണ് അത് വിള്ളൽ തൊട്ടു ഈ ഉയരം ഡെൽറ്റ t ആയി കണക്കാക്കുന്നു CTOD എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ അത് കാണും ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാരണം നിങ്ങൾ ഒരിക്കൽ EPFM ൽ വന്നാൽ ഈ ആശയങ്ങൾ ഒരുമിച്ച് പോകുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം CTOD യെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മൾ നോക്കിയില്ല നിങ്ങൾ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇത് ആദ്യം വികസിപ്പിച്ചെടുത്തു ശേഷം J യും എന്നാൽ എന്റെ അവതരണത്തിൽ ഞാൻ ആദ്യം J യെക്കുറിച്ച് ചർച്ച ചെയ്യുകയും CTOD ലേക്ക് പോകുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കി ചിത്രത്തിൽ നിന്ന് CTOD എന്താണെന്നതിന്റെ ലളിതമായ നിർവചനം ഇതിനായുള്ള പദപ്രയോഗം നമ്മൾ പിന്നീട് കാണും എന്നിട്ട് നിങ്ങൾ തിരിച്ചുവരിക Cherepanov HRR Field അതിനാൽ J CTOD എന്നിവ ഒരുമിച്ച് പോകുന്നു നിങ്ങൾക്ക് അവ സ്വതന്ത്രമായി ചർച്ച ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗ്രാഫും ഉണ്ട് ഈ മേഖലയിൽ സിഗ്മ yy എങ്ങനെ വ്യത്യാസപ്പെടുന്നു ഇവിടെ x അക്ഷത്തിൽ x നെ ഡെൽറ്റ t കൊണ്ട് ഹരിക്കുന്നു അതിനാൽഇത് CTOD യുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത് അതിനാൽ CTOD യുടെ 2 മടങ്ങ് നിങ്ങൾക്ക് ഫ്രാക്ചർ പ്രോസസ് സോൺ ഉണ്ട് അതാണ് 2 ആയി നൽകിയിരിക്കുന്നത് അതിനാൽ 2 മുതൽ 5 മുതൽ 6 വരെ HRR ഫീൽഡ് ആണ് എച്ച്ആർആർ ഫീൽഡിന് ശേഷം നിങ്ങൾക്ക് കെ ഫീൽഡ് ഉണ്ട് കെ ഫീൽഡിന് ശേഷം നിങ്ങൾക്ക് ഒരു പൊതു സ്ട്രെസ് ഫീൽഡ് ഉണ്ടാകും അതിനാൽഇപ്രകാരമാണ് എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനത്തിൽ ഫീൽഡ് വിവരങ്ങൾ ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ക്രാക്ക് ടിപ്പിൽ സിഗ്മ y യുടെ മൂല്യം മൂർച്ചയുള്ള വിള്ളലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ അല്ല കാരണം നിങ്ങൾ HRR ഫീൽഡിലും നോക്കുകയാണെങ്കിൽ ഇതും ക്രാക്ക് ടിപ്പിൽ അനന്തമായി പോകുന്നു K ഫീൽഡ് ക്രാക്ക് ടിപ്പിൽ അനന്തമായി പോകുന്നത് പോലെ HRR ഫീൽഡിനായുള്ള ഗണിതശാസ്ത്രപരമായ പദപ്രയോഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും ക്രാക്ക് ടിപ്പിൽ അനന്തമായി പോകുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ കാണിക്കുന്നത് മൂർച്ചയില്ലാത്തതിനാൽ ഇത് സിഗ്മ yy യുടെ ഒരു സാധാരണ വ്യതിയാനമായിരിക്കും സിഗ്മ yy ക്രാക്ക് ടിപ്പിൽ നിന്ന് ചെറിയ അകലെയുള്ള ഏറ്റവും ഉയർന്ന മൂല്യത്തിലെത്തുന്നു LEFM ന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് സ്ട്രെസ് ഫീൽഡ് പൂർണ്ണമായും K യുടെ മൂല്യത്താൽ നിർണ്ണയിക്കപ്പെടുന്നു സ്ട്രെസ് ഫീൽഡിന്റെ ശക്തി എന്താണെങ്കിലും K അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നു ഇതിനു സമാനമായി എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് ഇൽ സമ്മർദ്ദമണ്ഡലം നിങ്ങൾക്ക് സിഗ്മ ij എന്നത് sigma naught multiplied by J by alpha into sigma naught epsilon naught എന്ന് നൽകിയിരിക്കുന്നു അവിടെ I n multiplied by r whole power 1 by n plus 1 plus a function of theta and strain hardening exponent n എന്ന് ആകുന്നു ഇതിന്റെ കരുത്ത് J യുടെ മൂല്യത്താൽ നിർണ്ണയിക്കപ്പെടുന്നു ഈ നിബന്ധനകൾക്കെല്ലാം നിർവചനം ഉണ്ട് ആൽഫ ഒരു മെറ്റീരിയൽ സ്ഥിരാങ്കമാണ് സിഗ്മ നോട്ട് റഫറൻസ് യിൽഡ് സ്ട്രെങ്ത് ആണ് epsilon naught എന്നത് റഫറൻസ് യിൽഡ് സ്ട്രെയിൻ ആണ് n ഒരു സ്ട്രെയിൻ ഹാർഡനിങ് എക്സ്പോണന്റും I n ഒരു constant ആണ് ആളുകൾ ഇതിനായി പദപ്രയോഗങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ n ന്റെ മൂല്യം മാറ്റിസ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് I n ന്റെ മൂല്യം നേടാൻ കഴിയും ചില പ്രതിനിധി മൂല്യങ്ങൾ കാണിച്ചിരിക്കുന്നു അതിനാൽ n 1 ന് തുല്യമാകുമ്പോൾ I n ഏകദേശം അഞ്ചിന് തുല്യമാണ് n 1 ന് തുല്യമാകുമ്പോൾ നിങ്ങൾ റാംബെർഗ് ഓസ്ഗുഡ് നിയമം നോക്കുകയാണെങ്കിൽ അത് രേഖീയ ഇലാസ്റ്റിക് വിശകലനം നൽകുന്നു n അനന്തമാകുമ്പോൾ n 1 ന് തുല്യമാകുമ്പോൾ അത് നേരെ പോകും n അനന്തമാകുമ്പോൾഒരു നേരായ ഭാഗം ഉണ്ടാകും അതിനുശേഷം പൂർണ്ണമായും പ്ലാസ്റ്റിക് ലീനിയർ ഇലാസ്റ്റിക് പൂർണ്ണമായും പ്ലാസ്റ്റിക് n 1 നും 1 നും ഇൻഫിനിറ്റിക്ക് ഇടയിൽ സ്ഥിതിചെയ്യുന്നത് അനുയോജ്യമായ ഒരു വക്രം പോലെയാണ് അങ്ങനെയാണ് നിങ്ങൾ മെറ്റീരിയൽ സ്വഭാവത്തെ മോഡൽ ചെയ്യുന്നത് അതിനാൽ ഇത് ലീനിയർ ഇലാസ്റ്റിക് വിശകലനത്തിനുള്ളതാണ് ഇലാസ്റ്റിക് പെർഫെക്ടലി പ്ലാസ്റ്റിക്ക് ആകുമ്പോൾ I n ഏകദേശം മൂന്ന് ആണ് അതായത് n അനന്തതയ്ക്ക് തുല്യമാണ് പ്ലെയിൻ സ്ട്രെയിനിന്റെ കാര്യത്തിൽ n 1 ന് തുല്യമാകുമ്പോൾ I n ഏകദേശം 6 ന് തുല്യമാണ് n അനന്തമാകുമ്പോൾ I n 4 ന് തുല്യമാണ് അതിനാൽ നമ്മൾ ശരിക്കും സംസാരിക്കുന്നത് പെർഫെക്ടലി ഇലാസ്റ്റിക് ഇലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനെക്കുറിച്ചാണ് ഒരു നിരീക്ഷണം n എന്നത് നിങ്ങൾ മാറ്റുമ്പോൾ ഏകതാനമായി കുറയുന്നു നിങ്ങൾ n ന്റെ മൂല്യങ്ങൾ മാറ്റുമ്പോൾ I n ഏകതാനമായി കുറയുന്നു അതിനാൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾക്ക് ഒരു മൂർച്ചയുള്ള ക്രാക്ക് ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രാക്ചർ പ്രോസസ് സോൺ ഉണ്ട് ഇത് HRR ഫീൽഡിനെ ഉൾക്കൊള്ളുന്നു അത് J ആധിപത്യമുള്ള മേഖലയാണ് അത് K ഫീൽഡിനാൽ ചുറ്റപ്പെടും നിങ്ങൾക്ക് ഒരു പൊതു സമ്മർദ്ദ മേഖലയുണ്ട് ഇത് ഞാൻ സൂചിപ്പിച്ച സംഗ്രഹം മാത്രമാണ് ആ സിഗ്മ ij തീറ്റ കോമാ n എന്നത് ആംഗിൾ തീറ്റയുടെയും hardening index n ഇന്റെയും dimensionless functions ആണ് n 1 ന് തുല്യമാകുമ്പോൾ ഇത് ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്രതിനിധീകരിക്കുന്നു സ്ട്രെസ് ഫീൽഡിനായി സ്ക്വയർ റൂട്ട് സിംഗുലാരിറ്റി കാണുന്നു അതിനാൽ നമ്മൾ പരോക്ഷമായി പരിശോധിച്ചതിന്റെ സാധ്യമായ സമ്മർദ്ദങ്ങളുടെ മൂല്യങ്ങൾ തീർച്ചയായും ശരിയാണ് n എന്നത് അനന്തതയ്ക്ക് തുല്യമാണ് ഇത് തികച്ചും പ്ലാസ്റ്റിക് മെറ്റീരിയലിനാണ് സമ്മർദ്ദം സ്ഥിരമാണ് നമ്മൾ ചിത്രം വരച്ചപ്പോൾ ക്രാക്ക് ടിപ്പിൽ നിന്ന് CTOD ആയ ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇരട്ടി ക്രമത്തിൽ HRR ഫീൽഡ് സാധുവല്ല ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് J ആധിപത്യം പുലർത്തുന്ന ക്രാക്ക് ടിപ്പിൽ നിന്ന് അൽപ്പം അകലെയുള്ള ഒരു സോണിനെയും HRR ഫീൽഡ് പ്രതിനിധീകരിക്കുന്നു ഇത് വീണ്ടും ഊന്നിപ്പറയുന്നു ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സും HRR സമീപനങ്ങളും r 0 ആയിരിക്കുന്നതിനാൽ അനന്തമായ സമ്മർദ്ദങ്ങൾ പ്രവചിക്കുന്നു ഇത് വാസ്തവത്തിൽ യാഥാർത്ഥ്യമല്ല എന്നിരുന്നാലും എഞ്ചിനീയറിംഗ് കാഴ്ചപ്പാടിൽ നിന്ന് HRR സമീപനം വളരെ ഉപയോഗപ്രദമാണ് നിങ്ങൾക്കറിയാമോ ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ജേർണൽ ഓഫ് മെക്കാനിക്സ് ആൻഡ് ഫിസിക്സ് ഓഫ് സോളിഡ്സ് ഫിസിക്സ് ഇൽ പ്രസിദ്ധീകരിച്ച ഹച്ചിൻസൺ എഴുതിയ ഒരു പേപ്പർ ഉണ്ട് 'പ്ലാസ്റ്റിക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫീൽഡുകൾ ഒരു ക്രാക്ക് ടിപ്പിൽ' ഇത് 1968 ലായിരുന്നു 1968 ൽ റൈസ് J ഇന്റഗ്രൽ റിപ്പോർട്ട് ചെയ്തു അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് പോയിന്റിൽ നിന്ന് നോക്കിയാൽ 1968 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സംഭാവനകളുണ്ട് നമുക്ക് നോക്കാം highly പ്ലാസ്റ്റിക് വസ്തുക്കളിൽ J ക്ക് K യെ ഫ്രാക്ചർ മാനദണ്ഡം ആക്കി മാറ്റാൻ കഴിയും ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾക്ക് സ്ട്രെസ് തീവ്രത ഘടകത്തിന്റെ നിർണ്ണായക മൂല്യം ഉണ്ടായിരിക്കും നമ്മൾ അതിനെ ഫ്രാക്ചർ ടഫൻസ് എന്ന് വിളിച്ചു K I C എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾക്ക് വിപുലമായ പരീക്ഷണ രീതികൾ ഉണ്ടായിരുന്നു സമാന ലൈനുകളിൽ നിങ്ങൾക്ക് J I C യും ഉണ്ടായിരിക്കാം നിങ്ങൾക്കറിയാമോ നമ്മൾ ഇതിനകം കണ്ടതാണ് ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫ്രാക്ചർ വളരെ സങ്കീർണ്ണമാണ് അതിനാൽ നമ്മൾ ഒരു ലളിതമായ സമീപനം സ്വീകരിക്കും അതിനാൽ നമ്മൾ ഒരു നോൺ ലീനിയർ ഇലാസ്റ്റിക് സോളിഡിലേക്ക് നോക്കി ലീനിയർ അല്ലാത്ത ഇലാസ്റ്റിക് സോളിഡിനായി വികസിപ്പിച്ചെടുത്ത ആശയങ്ങൾ എന്തായാലും നമ്മൾ നീട്ടി ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുന്നതിൽ നമ്മൾ എല്ലായ്പ്പോഴും LEFM സമീപനത്തിലേക്ക് മടങ്ങുന്നു J ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സമാനമായ കാര്യങ്ങൾ വിപുലീകരിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ രീതിശാസ്ത്രത്തെ ഒരു എഞ്ചിനീയറിംഗ് വിശകലന വീക്ഷണകോണിൽ നിന്ന് ലളിതമാക്കുന്നു അതിനാൽ അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ അതേ രീതിയിലാണ് J അടിസ്ഥാനമാക്കിയുള്ള ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുന്നത് J അടിസ്ഥാനമാക്കിയുള്ള ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പ്രായോഗിക പ്രയോഗം LEFM നേക്കാൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഇവിടെയുള്ള ബുദ്ധിമുട്ട് J യുടെ ഫലം മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അവയെ K യെ പോലെ പട്ടികപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് നോക്കൂ വൈവിധ്യമാർന്ന ജ്യാമിതിക്കായി നമ്മൾ കണ്ടു K യുടെ മൂല്യം എന്താണ് സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടറിനോട് വളരെ സാമ്യമുള്ളതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഇവിടെ നിങ്ങൾ J യെ വിലയിരുത്തേണ്ടതുണ്ടെങ്കിൽ മെറ്റീരിയൽ സ്വഭാവവും ഒരു പങ്കുവഹിക്കുന്നു അതിനാൽ K പോലെ അവയെ പട്ടികപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ സമ്പൂർണ്ണ സംഖ്യാ കണക്കുകൂട്ടൽ നടത്തുകയും തുടർന്ന് ഓരോ കോൺഫിഗറേഷനും നേടുകയും വേണം അതിനാൽ അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് സാധാരണയായി ഒരു ഘടകത്തിന്റെ പൂർണ്ണമായ ഫീൽഡ് finite element വിശകലനം J കണ്ടെത്തുന്നതിനായി നടത്തുന്നു ഒരു ആശയപരമായ വീക്ഷണകോണിൽ നിന്ന് J ക്ക് K യെ ഒരു ഫ്രാക്ചർ മാനദണ്ഡമായി മാറ്റിസ്ഥാപിക്കാൻ കഴിയും J യുടെ വിലയിരുത്തൽ ഒരു വെല്ലുവിളിയാണ് K IC ക്ക് സമാനമായി J IC കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ടെസ്റ്റ് രീതികളുണ്ട് ഇതുകൂടാതെ ഒരു നിശ്ചിത കോൺഫിഗറേഷന് J തന്നെ കണ്ടെത്തുന്നത് വെല്ലുവിളിയാണ് നിങ്ങൾ കണ്ടെത്തിയത് പലതവണ കാണുക നിങ്ങൾക്ക് ആളുകളെ അറിയാം അവർ K കണ്ടെത്തുന്നതിനു പകരം J ആണ് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് ഐഡന്റിറ്റി ഉപയോഗിച്ച് K യുടെ മൂല്യം finite element കണക്കുകൂട്ടലിൽ നിന്ന് നേടുക ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഡൊമെയ്നിൽ മാത്രമാണ് ഇത് എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് പാരാമീറ്ററിനേക്കാൾ K കണ്ടെത്തുന്നതിനാണ് ആളുകൾ J കൂടുതൽ തവണ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം കാരണം എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനം ചെലവേറിയതും സമയമെടുക്കുന്നതുമാണ് ധാരാളം ആളുകൾ അതിൽ ഉൾപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾ ഒരു വ്യത്യാസം കണ്ടെത്തണം നിങ്ങൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനം നടത്തുകയും J കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ K കണ്ടെത്താൻ നിങ്ങൾ J കണക്കാക്കുകയാണോ അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും വ്യത്യസ്തമായി സൂക്ഷിച്ച് മനസ്സിലാക്കുക ക്രാക്ക് ടിപ്പിന് മുമ്പായി ട്രയാക്സിയൽ സ്ട്രെസ് അവസ്ഥ നിലനിൽക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മൂർച്ചയുള്ള ക്രാക്ക് ടിപ്പ് ഉണ്ട് അതിനാൽ ക്രാക്ക് ടിപ്പിനേക്കാൾ അല്പം മുന്നിലുള്ള ഒരു ട്രയാക്സിയൽ അവസ്ഥ നിങ്ങൾക്കുണ്ട് ആളുകൾ ഇത് ഏതെങ്കിലും രൂപത്തിൽ മാതൃകയാക്കാൻ ശ്രമിച്ചു അതിനാൽ ട്രയാക്സിയൽ സ്ട്രെസ് അവസ്ഥയെ കണക്കാക്കാൻ ഒരു അധിക പദം കണ്ടെത്താൻ അവർ ശ്രമിച്ചു അത് നിയന്ത്രണ പാരാമീറ്റർ എന്നും അറിയപ്പെടുന്നു നിങ്ങൾക്ക് J Q എന്നറിയപ്പെടുന്ന രണ്ട് പാരാമീറ്റർ മോഡലുകൾ ഉണ്ട് അവിടെ Q ഒരു നിയന്ത്രണ പാരാമീറ്ററാണ് നമ്മൾ കണ്ട ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ സിഗ്മ x സ്ട്രെസ് ടേമിലെ രണ്ടാമത്തെ ടേം നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ടെന്ന് ഫോട്ടോലാസ്റ്റീഷ്യൻ പറഞ്ഞു ഇത് സിഗ്മ naught x എന്നറിയപ്പെടുന്നു ഇത് പിന്നീട് ആളുകൾ T സ്ട്രെസ് എന്ന് മനസ്സിലാക്കി അത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഡൊമെയ്നിലാണ് എലാസ്റ്റോ പ്ലാസ്റ്റിക് മെക്കാനിക്സിന്റെ ഡൊമെയ്നിൽ അവർ Q എന്ന മറ്റൊരു പാരാമീറ്ററിൽ എത്തി അത് ഒരു നിയന്ത്രണ പാരാമീറ്റർ എന്നറിയപ്പെടുന്നു പ്ലാസ്റ്റിക് സോണിലെ സ്ട്രെസ് ഫീൽഡിന്റെ സ്വഭാവത്തിന് ഇത് ഉപയോഗിക്കുന്നു അത്തരം സമീപനങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം ലഭിക്കുന്നു അതിനാൽ നിങ്ങൾ അറിയേണ്ടതുണ്ട് ആളുകൾ നോക്കുന്ന നിലവിലെ സമീപനം എന്താണ് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലെ T സ്ട്രെസ് സ്വാധീനം നമ്മൾ പരിശോധിച്ചതുപോലെ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനത്തിൽ Q എന്ന നിയന്ത്രിത പാരാമീറ്ററിനെക്കുറിച്ചും ആളുകൾ സംസാരിക്കുന്നു HRR ഫീൽഡ് ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്കറിയാം പരിമിതികളും ഉണ്ട് ആ പരിമിതികൾ നമ്മൾ വ്യക്തമായി അറിയേണ്ടതുണ്ട് HRR Field Limitations നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് സ്റ്റേറ്റിന്റെ അളവുകോലായി J യുടെ വ്യാഖ്യാനം റാംബെർഗ് ഓസ്ഗുഡ് ഘടനാപരമായ മോഡലിന് മെറ്റീരിയലിനെ ബാധിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിൽ ആളുകൾ എന്താണ് ചെയ്യുന്നതും HRR സ്ട്രെസ് ഫീൽഡ് ആശയം വികസിപ്പിക്കുന്നതിൽ ഫ്ലോ മോഡലിന്റെ ലീനിയർ ഭാഗം സൌകര്യപ്രദമായി അവഗണിക്കുന്നു റാംബെർഗ് ഓസ്ഗൂഡ് നിയമം നോക്കുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിറ്റിയിൽ ഏതെങ്കിലും പുസ്തകം എടുക്കുകയാണെങ്കിൽ അവിടെ ഈ പദപ്രയോഗം ഉണ്ടാകും epsilon divided by epsilon naught equal to sigma by sigma naught plus alpha into sigma by sigma naught whole power n HRR സ്ട്രെസ് ഫീൽഡിന്റെ വികസനത്തിൽ ഫ്ലോ മോഡലിന്റെ ലീനിയർ ഭാഗം അവഗണിക്കപ്പെടുന്നു നോൺ ലീനിയർ ഭാഗം മാത്രമേ പരിഗണിക്കൂ ഇതിന് ഒരു നേട്ടവും ഉണ്ട് ഒരു പോരായ്മയും ഉണ്ട് നിങ്ങൾ രണ്ടും അറിയണം ടിപ്പിന് സമീപമുള്ള പ്രദേശത്ത് സമ്മർദ്ദങ്ങൾ വലുതാണെന്ന് കണക്കാക്കപ്പെടുന്നു മൊത്തം deformation താരതമ്യപ്പെടുത്തുമ്പോൾ രേഖീയ ഭാഗത്തിന്റെ സംഭാവന ചെറുതാണ് അത്തരം വൈരുദ്ധ്യങ്ങൾ നിരവധി ഫീൽഡുകളിൽ വരുന്നതായി നിങ്ങൾക്കറിയാം മറ്റൊന്നിനെ അപേക്ഷിച്ച് എന്തെങ്കിലും വലുതാണെന്ന് നിങ്ങൾ പറയുമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ മറ്റൊന്നിനെ അപേക്ഷിച്ച് വലിയ അളവ് ഇപ്പോഴും ചെറുതാണ് നിങ്ങൾക്കറിയാമോ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിലവിലുണ്ട് അത്തരം ഏകദേശ കണക്കുകളില്ലാതെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വിശകലനം നടത്താൻ കഴിയില്ല HRR ഫീൽഡിന്റെ വികസനത്തിൽ അത്തരം ഏകദേശ കണക്കുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയുന്നതാണ് നല്ലത് അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് തത്വത്തിൽ ഇത് തള്ളിക്കളയും K IC ടെസ്റ്റ് നഷ്ടപ്പെടുന്ന മെറ്റീരിയലുകൾക്ക് ബദൽ സ്വഭാവ സവിശേഷതയായ പാരാമീറ്ററായി J ഉപയോഗിക്കുന്നത് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം ഇത് വളരെ സവിശേഷമായ ഒരു പരീക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു പരിശോധനയുടെ തുടക്കത്തിൽ മൂല്യം സ്വീകാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങൾ വളരെ സങ്കീർണ്ണമായ പരിശോധന നടത്തുന്നു അവസാനം നിങ്ങൾ അത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്ന് പറയുന്നു സംശയത്തോടെ പുറത്തുപോകുന്നതിനുപകരം ആളുകൾ മറ്റൊരു തരം കോഡുകളും വികസിപ്പിച്ചെടുത്തു അവിടെ നിങ്ങൾ കുറച്ചുകൂടി സമഗ്രമായ അളവുകൾ നടത്തേണ്ടതുണ്ട് K IC പരാജയപ്പെട്ടാൽ കുറഞ്ഞത് നിങ്ങൾക്ക് CTOD അല്ലെങ്കിൽ J റിപ്പോർട്ടുചെയ്യാം നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുമാനങ്ങൾ അതിനൊപ്പം പോകില്ല അടുത്തുള്ള ടിപ്പ് മേഖലയിൽ സമ്മർദ്ദങ്ങൾ ആവശ്യത്തിന് വലുതാണ് അതാണ് രേഖീയ ഭാഗത്തിന്റെ ചെറിയ സംഭാവന നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഇത് കർശനമായി ബാധകമല്ല പക്ഷെ നമ്മൾ അത് ചെയ്യുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം HRR സ്ട്രെസ് ഫീൽഡ് unique അല്ല എന്നതാണ് ഇത് വീണ്ടും ചർച്ച വളരെ അടിസ്ഥാനപരമാണ് ഇത് എല്ലാ emperical ബന്ധങ്ങൾക്കും ബാധകമാണ് ഘടനാപരമായ ബന്ധങ്ങൾ സ്വഭാവത്തിൽ അന്തർലീനമല്ല ഒരു താരതമ്യവും സജ്ജമാക്കി സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ട്രാൻസ്ഫോർമേഷൻ നിയമങ്ങളുടെ അതേ അർത്ഥത്തിൽ നിയമങ്ങൾ പോലെയല്ല രൂപത്തിലുള്ള ബന്ധങ്ങൾ നോക്കൂ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ട്രാൻസ്ഫോർമേഷൻ നിയമം വ്യക്തമാണ് നിങ്ങൾക്ക് rank 2 ടെൻസർ ഉണ്ടെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് അത് ഈ രീതിയിൽ മാത്രമേ പരിവർത്തനം ചെയ്യൂ നേരെമറിച്ച് ഭരണഘടനാ ബന്ധങ്ങൾ ഇതുപോലെയല്ല അവ അനുഭവപരമായ ബന്ധങ്ങളാണ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം മെറ്റീരിയലിന്റെ നിരീക്ഷിച്ച സ്വഭാവത്തെ മാതൃകയാക്കാൻ തിരഞ്ഞെടുത്തു പ്രായോഗിക ബന്ധങ്ങൾ എന്ന് ഞാൻ പറയുന്ന നിമിഷം തന്നിരിക്കുന്ന തരത്തിലുള്ള ഡാറ്റയ്ക്കായി ഒരാൾക്ക് മറ്റൊരു emperical ബന്ധത്തിൽ എത്തിച്ചേരാം അതിനാൽ ആ കാഴ്ചപ്പാടിൽ HRR സ്ട്രെസ് ഫീൽഡ് unique അല്ല നമ്മൾ ഇവിടെ എന്ത് ചർച്ച ചെയ്താലും അത് എല്ലാ emperical ബന്ധങ്ങൾക്കും ബാധകമാണ് വാസ്തവത്തിൽ EPFM ൽ നിങ്ങൾ കാണുന്നത് emperical ബന്ധങ്ങൾ മാത്രമാണ് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി EPFM ഉപയോഗം സാധ്യമാക്കിയത് അങ്ങനെയാണ് CTOD ൽ പോലും നിങ്ങൾക്ക് emperical ബന്ധങ്ങൾ മാത്രമേ കാണാനാകൂ അതിനാൽ LEFM പോലെ ഒരു ഗണിതശാസ്ത്ര അടിത്തറയുടെ ഉറച്ച അഭാവം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് അതിന്റെ സ്വാധീന മേഖലയിൽ EPFM ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ EPFM ഇനായി J ഉപയോഗിക്കുന്നത് ആരാണ് 1972 ൽ ബെഗ്ലിയും ലാൻഡെസും നടത്തിയ പരീക്ഷണാത്മക പ്രവർത്തനമായിരുന്നു ഇത് J 3 വെത്യസ്ഥ സവിശേഷതകൾ നൽകുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു ഓർക്കുക ഇത് വികസിപ്പിച്ചെടുത്തത് 1968 ലാണ് റൈസ് എഴുതിയ പ്രബന്ധം 1968 ലായിരുന്നു ഇതിന്റെ പൂർണ ഉപയോഗവും ധാരണയും 1972 ൽ മാത്രമാണ് വന്നത് ലീനിയർ പെരുമാറ്റത്തിന് G ക്ക് സമാനമാണ് J അതിനാൽ നമ്മൾ സാമാന്യവൽക്കരണത്തിനായി പോകുന്നു അത് ആശ്വാസം നൽകുന്നു ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് സ്വഭാവത്തിന് അത് ക്രാക്ക് ടിപ്പ് പ്രദേശത്തിന്റെ സവിശേഷത ആണ് K ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ സ്ട്രെസ് ഫീൽഡ് ശക്തി നിർണ്ണയിക്കുന്നതു പോലെ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ J അത് നിർണയിക്കുന്നു ഫീൽഡിന്റെ കരുത്ത് നിർണ്ണയിക്കുന്നത് J ആണ് അവർ മറ്റൊരു നിരീക്ഷണവും നടത്തി ഇത് സൌകര്യപ്രദമായി പരീക്ഷണാത്മകമായി വിലയിരുത്താം J കണ്ടെത്താനായി അവർ പരീക്ഷണങ്ങൾ നടത്തിയതിനാൽ അവർ തങ്ങളുടെ നിരീക്ഷണവും ഇതുപോലെ സംഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ G നോക്കിയാലും ആളുകൾക്ക് പരീക്ഷണാത്മകമായി G കണ്ടെത്താൻ കഴിഞ്ഞു അതിനുശേഷം മാത്രമാണ് അനലിറ്റിക്കൽ കണക്കുകൂട്ടലുകൾ വളരെ പ്രചാരത്തിലായത് രൂപഭേദം വരുത്തിയ പ്ലാസ്റ്റിറ്റി അടിസ്ഥാനമാക്കിയാണ് J വികസിപ്പിച്ചതെന്നും നിങ്ങൾ ഓർമ്മിക്കുക രൂപഭേദം വരുത്തുന്ന പ്ലാസ്റ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമീപത്തുള്ള വിള്ളൽ വലുപ്പം സമാനമായി ലോഡുചെയ്ത രണ്ട് bodies തമ്മിലുള്ള potential ഊർജ വ്യത്യാസമായി J വ്യാഖ്യാനിക്കാമെന്ന് റൈസ് തെളിയിച്ചിട്ടുണ്ട് നോക്കൂ പ്രസ്താവന സൂക്ഷ്മമാണ് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ ഒരു വിള്ളലിന് സ്വയം ഇത് നീട്ടാൻ കഴിയും വിശകലനം ഇപ്പോഴും സാധുവാണ് എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനത്തിന്റെ കാര്യത്തിൽ വിള്ളൽ വളരുന്ന നിമിഷം അൺലോഡിംഗ് നടക്കുന്നു നിങ്ങളുടെ വിശകലനം കൃത്യമല്ല കാരണം നിങ്ങൾ രൂപഭേദം വരുത്തുന്ന പ്ലാസ്റ്റിറ്റി സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ 2 വ്യത്യസ്തമായ വിള്ളൽ നീളമുള്ള മാതൃകകൾ എടുക്കണമെന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് വാസ്തവത്തിൽ ബെഗ്ലിയും ലാൻഡെസും അത്തരത്തിലുള്ള പരീക്ഷണം ആണ് നടത്തിയത് അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് അൺലോഡിംഗ് നടക്കുമ്പോൾ പ്ലാസ്റ്റിറ്റിയുടെ രൂപഭേദം അസാധുവായിത്തീരുന്നു അതായത് വിപുലീകരിക്കുന്ന വിള്ളലിന് ഇത് കർശനമായി സാധുതയുള്ളതല്ല അത് കണക്കിലെടുക്കുമ്പോൾ J യുടെ ഊർജ വ്യാഖ്യാനം വിപുലീകരിക്കുന്ന വിള്ളലിന് കർശനമായി സാധുതയില്ലെന്ന് ബെഗ്ലിയും ലാൻഡെസും തിരിച്ചറിഞ്ഞു നോൺ ലീനിയർ ഇലാസ്റ്റിക് സോളിഡിന്റെ കാര്യത്തിൽ ഈ നിർവചനം ശരിയാണ് എന്നാൽ നിങ്ങൾ അത് എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനത്തിലേക്ക് കൊണ്ടുപോയാൽ J ഊർജ പ്രകാശന നിരക്ക് എന്ന വ്യാഖ്യാനം വിപുലീകരിക്കുന്ന വിള്ളലിന് കർശനമായി സാധുതയുള്ളതല്ല അതിനാൽ ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് വസ്തുക്കളിൽ വിള്ളൽ നീട്ടുന്നതിന് ലഭ്യമായ ഊർജം ഉപയോഗിച്ച് J തിരിച്ചറിയാൻ കഴിയില്ല എന്നിരുന്നാലും ഇത് സ്വഭാവ സവിശേഷതയായ ക്രാക്ക് ടിപ്പ് ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫീൽഡിന്റെ അളവായതിനാൽ ഇത് ശാരീരികമായി പ്രസക്തമായ അളവ് നൽകുന്നു നിങ്ങൾക്ക് നൽകാനാകുന്ന എല്ലാ പ്രാധാന്യവും അതാണ് അതിനപ്പുറം നിങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ കഴിയില്ല EPFM ഇന്റെ ആപ്ലിക്കേഷൻ ഏരിയകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണും കാരണം ആളുകൾ EPFM ഇനായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ആവശ്യമായിരിക്കണം വൈദ്യുതി ഉൽപാദന കെമിക്കൽ പ്രോസസ്സിംഗ് വ്യവസായങ്ങളിൽ കട്ടിയുള്ള മതിലുകളും പൈപ്പുകളുമുള്ള ഉയർന്ന മർദ്ദമുള്ള ഭാഗങ്ങളിലാണ് മിക്ക വിള്ളലുകളും സംഭവിക്കുന്നത് ന്യൂക്ലിയർ പ്രഷർ പാത്ര വ്യവസായത്തിൽ മെറ്റീരിയൽ കാഠിന്യം വളരെ പ്രധാനമാണ് ഉയർന്ന പ്രാരംഭ കാഠിന്യം ഉണ്ടായിരുന്നിട്ടും ഫാറ്റീഗ് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് എന്നിവ കാരണം സബ്ക്രിട്ടിക്കൽ ന്യൂനതകൾ വികസിച്ചു ന്യൂട്രോൺ ബോംബാക്രമണം മൂലം മെറ്റീരിയൽ അധപതിക്കുന്നു ഇത് ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനുകൾക്ക് സവിശേഷമായ ഒന്നാണ് അത്തരം സന്ദർഭങ്ങളിലെല്ലാം EPFM ആശയങ്ങൾ അത്യാവശ്യമാണ് പ്രധാനമായും എയ്റോസ്പേസ് വ്യവസായത്തിലാണ് LEFM പ്രയോഗിക്കുന്നത് എന്നത് ഓർമിക്കേണ്ടതാണ് അതിനാൽ ആപ്ലിക്കേഷൻ ഏരിയകൾ വ്യത്യസ്തമാണ് നിങ്ങൾ എയ്റോസ്പെയ്സിൽ കാണുന്നത് LEFM നേർത്ത ഘടനകളിൽ ഒതുങ്ങുന്നു എന്നാണ് നിങ്ങൾക്ക് വളരെ കട്ടിയുള്ള മെറ്റീരിയലും വളരെ കടുപ്പമുള്ള വസ്തുക്കളും ഉള്ളപ്പോൾ നിങ്ങൾ J യിലേക്ക് പോകണം ഒരു ന്യൂക്ലിയർ റിയാക്ടർ സ്റ്റീൽ മെറ്റീരിയലിൽ K IC നിർണ്ണയം പരാജയപ്പെടുന്നുവെന്നും ഞാൻ വളരെക്കാലം മുമ്പ് സൂചിപ്പിച്ചിരുന്നു കാരണം നിങ്ങൾ കനം നിർണ്ണയിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അതിൽ ഇരിക്കാൻ കഴിയും ഇത് ഏകദേശം 1 മീറ്റർ കട്ടിയുള്ളതും വളരെ വലുതുമാണ് മറുവശത്ത് ന്യൂക്ലിയർ റിയാക്ടർ സ്റ്റീലിനായി നിങ്ങൾ പോയി J IC നിർണ്ണയിക്കാൻ ആവശ്യമായ മാതൃകയുടെ കനം എന്താണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് ഏകദേശം 15 മില്ലിമീറ്ററാണ് അതിനാൽ ഇത് ചെയ്യാൻ കഴിയുന്നതാണ് അതിനാൽ ആപ്ലിക്കേഷൻ ഏരിയയെ ആശ്രയിച്ച് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ രീതി നിങ്ങൾ തിരഞ്ഞെടുക്കണം COD -Definition COD സമീപനത്തെക്കുറിച്ച് ഒരു ലഘു ആമുഖവും നമുക്ക് ഉണ്ടാകും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ 1958 ൽ ഇർവിൻ കീസ് സ്മിത്ത് എന്നിവർ ചേർന്ന് പ്ലാസ്റ്റിക് സോണിനെ കണക്കാക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ ആരംഭിച്ചു ലീനിയർ ഇലാസ്റ്റിക് സമീപനത്തിന്റെ പ്രയോഗക്ഷമത വിപുലീകരിക്കാൻ അവർ ആഗ്രഹിച്ചപ്പോൾ ഒരു plasticity enhanced സമ്മർദ്ദ തീവ്രത ഘടകം നിർദ്ദേശിച്ചു അതിൽ വിള്ളലിന്റെ നീളം ചെറുതായി വലുതാക്കി ഇത് നമ്മൾ കണ്ടു നിങ്ങൾ ഇർവിന്റെ മാതൃക നോക്കിയിരുന്നു നിങ്ങൾ ഡഗ്ഡെയ്ലിന്റെ മോഡൽ ഉം നോക്കിയിരുന്നു നിങ്ങൾ വിലയിരുത്തി ക്രാക്ക് ദൈർഘ്യത്തിലേക്ക് നിങ്ങൾ ചേർക്കേണ്ട വർദ്ധനവ് എന്തായിരിക്കണം ഒപ്പം ആ വിള്ളൽ നീളം ഫലപ്രദമായ വിള്ളൽ നീളമാക്കി എങ്ങനെ മാറ്റാം എന്ന് അതിനാൽ ഇത് പരിമിതപ്പെടുത്തി ഇതാണ് ആദ്യത്തെ ഏകദേശ രൂപം 1961 ൽ വെൽസും കോട്രലും സ്വതന്ത്രമായി ഒരു ബദൽ ആശയം മുന്നോട്ടുവച്ചു പൊതുവായ yield ലഭിക്കുന്ന അവസ്ഥയ്ക്കപ്പുറവും ഇത് ബാധകമാകുമെന്ന പ്രതീക്ഷയിൽ

അതിനാൽ അതായിരുന്നു ശ്രദ്ധ ചരിത്രപരമായി J യുടെ വികസനത്തിന് മുമ്പായിരുന്നു COD അല്ലെങ്കിൽ CTOD യുടെ ബന്ധപ്പെട്ട ആശയങ്ങൾ വികസിപ്പിച്ചത് വെൽസ് നിർദ്ദേശിച്ചപ്പോൾ ഇർവിന്റെ പ്ലാസ്റ്റിക് സോണിന്റെ ആവിഷ്കാരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം അത് ഉപയോഗിച്ച് COD വിലയിരുത്തി അതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ച് COD വിലയിരുത്തി അത് അനന്തമായ സ്ട്രിപ്പിലെ സെന്റർ ക്രാക്കിന്റെ പ്രശ്നത്തിന് വേണ്ടിയായിരുന്നു ഇനിയും മുന്നോട്ട് പോകുന്നതിന് മുമ്പ് CTOD എന്താണ് എന്ന് മനസിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക അതിനാൽ നിങ്ങൾ നോക്കുക plasticity ഇഫക്റ്റ് സാങ്കൽപ്പിക വിള്ളൽ ഉൾപ്പെടുത്തി ഇത് സാങ്കൽപ്പികം മാത്രമാണ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ വിള്ളൽ ഉണ്ട് കാരണം നിങ്ങൾക്ക് ഒരു ക്രാക്ക് ടിപ്പ് ഉണ്ടെങ്കിൽ അവിടെ സ്ഥാനചലനം ഉണ്ടാകാൻ കഴിയില്ല പിന്നെ എന്താണ് ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് അത് നിർവചിക്കേണ്ടതുണ്ട് plasticity corrected fictitious വിള്ളൽ നീളത്തിൽ നിന്നാണ് അത് വരുന്നത് അതിനാൽ ഇത് ഇതുപോലെ തുറക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള യഥാർത്ഥ വിള്ളൽ ഉണ്ട് യഥാർത്ഥ വിള്ളൽ opening നീളത്തിൽ CTOD അല്ലെങ്കിൽ COD ആയി കണക്കാക്കുന്നു തുറന്ന വിള്ളലിന്റെ ആകൃതിയുടെ പ്രകടനമായി നമ്മൾ COD നെ നോക്കിയിരുന്നു ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നമ്മൾ നോക്കിയിരുന്നു EPFM ൽ അവർ CTOD അല്ലെങ്കിൽ COD ഉപയോഗിക്കുന്നു ഈ നിർവചനം നിങ്ങളുടെ plasticity enhanced ക്രാക്ക് ടിപ്പിൽ നിന്നാണ് എടുത്തത് അതിനാൽ ഇതൊരു സാങ്കൽപ്പിക വിള്ളലാണ് ഇതാണ് യഥാർത്ഥ വിള്ളൽ ഇവിടെ തുറക്കുന്നതെന്തും CTOD അല്ലെങ്കിൽ COD എന്നറിയപ്പെടുന്നു 1979 ൽ ട്രേസി നൽകിയ ഒരു നിർവചനവും ഉണ്ടായിരുന്നു നമ്മൾ HRR ഫീൽഡിലും നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടത് ഇതാണ് 45 ഡിഗ്രി കോണിൽ പരസ്പരം ലംബമായ വരകൾ നിങ്ങൾ വരയ്ക്കുന്നു ഇത് മൂർച്ചയുള്ള വിള്ളൽ cut ചെയ്യുന്നു ഈ ഉയരം CTOD അല്ലെങ്കിൽ COD ആയി കണക്കാക്കുന്നു പ്രായോഗികമായി crack mouth opening സ്ഥാനചലനം അളക്കുന്നു ASTM സ്റ്റാൻഡേർഡ് E1820 ഇൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടുന്നു അതിനാൽ ഉചിതമായ ഗേജ് ഉപയോഗിച്ച് crack mouth opening displacement മാത്രമാണ് നിങ്ങൾ കണക്കാക്കുന്നത് ഫ്രാക്ചർ പരിശോധനയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് കണ്ടത് അതിൽ നിന്ന് ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്കറിയാമോ ഞാൻ ഡെറിവേഷൻ ഘട്ടങ്ങൾ കാണിച്ചിട്ടില്ല ഇർവിന്റെ പരിഷ്ക്കരിച്ച മൂല്യത്തിൽ നിന്ന് ക്രാക്ക് ദൈർഘ്യത്തിന്റെ വർദ്ധിച്ച വ്യാപ്തിയുടെ ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റിനായി ഒരു എക്സ്പ്രഷൻ കണക്കാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ചെയ്യുന്നത് COD ക്ക് ഉള്ള പദപ്രയോഗം ഇപ്രകാരമാണ് 4 sigma by E into crack length minus that distance എന്നാണ് അതിനാൽ നിങ്ങൾ അത് effective വിള്ളൽ നീളം എന്നാക്കി effective വിള്ളൽ നീളം a plus the plastic zone length divided by 2 എന്നാണ് നിങ്ങൾ ആ പദപ്രയോഗങ്ങൾ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റും K യും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇർവിന്റെ സമീപനത്തിൽ നിന്ന് വെൽസ് ആൽഫയുടെ മൂല്യം 4 ബൈ പൈ എന്ന് കണ്ടെത്തി അത് എനർജി ബാലൻസ് സമീപനത്തിൽ നിന്ന് ഒന്ന് എന്ന് ലഭിക്കും അദ്ദേഹം ഇതിനെ ഒന്ന് എന്ന് സ്വീകരിച്ചു ഇതിന്റെ ബുദ്ധിമുട്ടുകൾ കാണുക നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഒരു കൂട്ടം എക്സ്പ്രഷനുകളുണ്ട് നിങ്ങൾക്ക് ഒരു ഫലം ലഭിക്കും ഇത് ഊർജ്ജ വിശകലനവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ അത് പരിഷ്ക്കരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കും ഞാൻ ഇർവിന്റെ മോഡലിലൂടെ പോകുന്നില്ലെങ്കിൽ ഞാൻ ഡഗ്ഡെയ്ലിൻറെ മോഡലിലൂടെ പോയാൽ എനിക്ക് ഇത് ഒന്നെന്നു ലഭിക്കുന്നു ഡഗ്ഡെയ്ലിന്റെ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള ഏകദേശ പ്രവചനങ്ങൾ ഇത് ഒന്നെന്നു പ്രവചിക്കുന്നു അതിനാൽ ഡഗ്ഡെയ്ലിന്റെ മോഡലിൽ നിന്നും എനർജി ബാലൻസ് സമീപനത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ട് അതിനാൽ നിങ്ങൾ K I ന് തുല്യമായ ഡെൽറ്റയെ E യുടെ വർഗ്ഗത്തിൽ നിന്ന് സിഗ്മ ys ലേക്ക് എടുക്കുന്നു ഇത് എന്താണ് കാണിക്കുന്നത് LEFM COD KI എന്നിവയുടെ പരിധിക്കുള്ളിൽ ഇത് കാണിക്കാൻ കഴിയും ഇത് CTOD or COD ആണ് LEFM ബാധകമാകുന്നിടത്തോളം കാലം ഇത് KI മായി ബന്ധപ്പെട്ടിരിക്കുന്നു COD from Dugdale's Model അതിനാൽ അവ വ്യത്യസ്ത പാരാമീറ്ററുകളല്ല നിങ്ങൾക്കും ഡഗ്ഡെയ്ലിന്റെ മാതൃകയിൽ നിന്നുള്ള COD നുള്ള എക്സ്പ്രഷൻ ഉണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡഗ്ഡേൽ തന്റെ മോഡൽ 1961 ലോ മറ്റോ റിപ്പോർട്ട് ചെയ്തു പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തി മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുള്ളൂ 1963 ൽ നിന്ന് ഗുഡിയറും ഫീൽഡും വിള്ളൽ മുഖം മാറ്റുന്നതിനുള്ള ആദ്യത്തേത് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ഒരു നീണ്ട പദപ്രയോഗം നേടുകയും ചെയ്തു COD എന്നത് 8 by pi multiplied by a into sigma ys divided by E natural logarithm of secant of pi by 2 sigma by sigma ys എന്നാണ് പ്രതീകാത്മകത നിങ്ങൾ ഓർക്കുക നേരത്തെ ഡഗ്ഡെയ്ലിന്റെ മാതൃകയിൽ പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തിയായി നമ്മൾ ഡെൽറ്റ ഉപയോഗിച്ചിരുന്നു EPFM ന്റെ പശ്ചാത്തലത്തിൽ ഡെൽറ്റ CTOD നെ സൂചിപ്പിക്കുന്നു നമ്മൾ ഇതിനകം കണ്ടു CTOD ഡയഗ്രം എന്താണ് എന്ന് 1966 ൽ 3 വർഷത്തിനുശേഷം ബർഡെകിനും സ്റ്റോണും ഈ പദപ്രയോഗം ലളിതമാക്കി ഇത് ഒരു ടെയ്ലർ സീരീസ് ആയി പ്രകടിപ്പിക്കുകയും delta equal to K I squared divided by E into sigma ys multiplied by 1 plus pi squared by 24 into sigma by sigma ys whole squared plus so on അങ്ങനെ പലതും അതിനാൽ രണ്ടാമത്തെ പദം ചെറുതാണെന്നും രണ്ടാമത്തേതും higher order term ഉം ചെറുതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ delta can be approximately related to K I squared divided by E into sigma ys ഞാൻ ഒരു ഫലം കൂടി കാണിക്കാം തെളിവില്ലാതെ ഞാൻ അത് നോക്കും J CTOD എന്നിവ തമ്മിലുള്ള ബന്ധവും കണ്ടെത്താനും കഴിയും Relationship between J and CTOD അതിനാൽ നിങ്ങൾ ചെയ്യുന്നത് ഡഗ്ഡെയ്ലിന്റെ Dugdale's yield സ്ട്രിപ്പ് മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതു പോലെ സ്ട്രിപ്പ് yield മേഖലയുടെ അതിർത്തിയിൽ ഒരു കോണ്ടൂർ എടുക്കുക വ്യക്തതയ്ക്കായി ഇത് വലുതായി കാണിക്കുന്നു എന്നാൽ ഇത് ഇതിന് വളരെ അടുത്താണെന്ന് നിങ്ങൾ കരുതുന്നു വ്യക്തതയ്ക്കായി ഇത് വലുതായി കാണിക്കുന്നു എന്നാൽ ഇത് ഇതിന് വളരെ അടുത്താണെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ J ഇന്റഗ്രൽ ആശയം പ്രയോഗിക്കുകയാണെങ്കിൽ CTOD ലേക്ക് സിഗ്മ ys ന് തുല്യമായ J നെ ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിന്റെ ഡെറിവേഷൻ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല J ഇന്റഗ്രലിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും J യും ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് Interrelationship of Fracture Parameters ചുരുക്കത്തിൽ body യുടെ മറ്റേതൊരു സ്വഭാവ മാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകീകൃത മേഖലയുടെ വ്യാപ്തി ചെറുതാണെങ്കിൽ ഈ സോണുകളിൽ നിന്ന് വേണ്ടത്ര നീക്കംചെയ്താൽ ഈ സോണുകളെ അവഗണിക്കുന്ന ഇലാസ്റ്റിക് ലായനിയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ രൂപഭേദം സംഭവിക്കുകയുള്ളൂ അതിനാൽ ചെറിയ തോതിലുള്ള yielding പരിധിക്കുള്ളിൽ എല്ലാ ഫ്രാക്ചർ പരാമീറ്ററുകളും തുല്യമാണ് എന്ന് കണ്ടെത്തുന്നു CTOD എന്നത് K I squared divided by E into sigma ys എന്നാകുന്നു G എന്നത് K I squared by E ആണ് sigma ys delta equal to G or equal to J അതിനാൽ ഇത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് ഇന്റെ പരിധിക്കുള്ളിൽ ഒരുതരം ആശ്വാസം നൽകുന്നു ഈ വ്യത്യസ്ത പാരാമീറ്ററുകളെല്ലാം പരസ്പരബന്ധിതമാണ് അതിനാൽ അതാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ നമ്മൾ ശരിയായ ദിശയിലേക്ക് പോകുന്നുവെന്ന ആശ്വാസം ഇത് നൽകുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സമ്മർദ്ദ തീവ്രതയായി പാരാമീറ്റർ നമ്മൾ J യെ നോക്കിയിരുന്നു നമ്മൾ നോക്കി എന്താണ് HRR ഫീൽഡ് പിന്നെ എന്താണ് EPFM ആപ്ലിക്കേഷൻ ഏരിയകൾ CTOD നായുള്ള എക്സ്പ്രഷനുകൾ നമ്മൾ പരിശോധിച്ചു ഇത് ഡഗ്ഡെയ്ലിന്റെ മോഡലിൽ നിന്നോ ഇർവിന്റെ മോഡലിൽ നിന്നോ ലഭിക്കും ഒടുവിൽ ഫ്രാക്ചർ പാരാമീറ്ററുകൾ തമ്മിലുള്ള പരസ്പരബന്ധം നമ്മൾ പരിശോധിച്ചു